ഈ മൊഡ്യൂളിലേക്ക് സ്വാഗതം അവസാന മൊഡ്യൂളിൽ ഓസിലേഷൻസിന്റെ മാനദണ്ഡം നമ്മൾ കണ്ടു ബാർഖൌസെൻ ക്രൈറ്റീരിയൻ മനസ്സിലാക്കി ഇപ്പോൾ ഈ മൊഡ്യൂളിൽ ഓസിലേറ്ററുകളെ എങ്ങനെ തരംതിരിക്കാമെന്ന് നോക്കാം അതിനാൽ നമ്മൾ സ്ക്രീനിൽ തിരിച്ചെത്തിയാൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഔട്ട്പുട്ട് തരംഗരൂപത്തിന്റെ സ്വഭാവം ഉപയോഗിച്ച പാരാമീറ്ററുകൾ ആവൃത്തിയുടെ പരിധി മുതലായവയെ അടിസ്ഥാനമാക്കി ഓസിലേറ്ററിനെ തരംതിരിക്കാം വേവ് ഔട്ട്പുട്ട് പാരാമീറ്ററുകളുടെ സ്വഭാവം ആവൃത്തികളുടെ ശ്രേണി എന്നിവ ചില ഘടകങ്ങളാണ് അതിനാൽ ചില തരംതിരിവുകൾ ഔട്ട്പുട്ട് തരംഗരൂപത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് സർക്യൂട്ട് ഘടകങ്ങളെ അടിസ്ഥാനമാക്കി ഓപ്പറേറ്റിംഗ് ആവൃത്തിയെ അടിസ്ഥാനമാക്കി ഫീഡ്ബാക്ക് നൽകിയിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെ അടിസ്ഥാനമാക്കി ഒക്കെ തരം തിരിക്കാം അതിനാൽ ഔട്ട്പുട്ട് തരംഗരൂപത്തെ അടിസ്ഥാനമാക്കി ഇതിനെ സിനുസോയ്ഡൽ നോൺ സിനുസോയ്ഡൽ ഓസിലേറ്ററുകൾ എന്നിങ്ങനെ തരംതിരിക്കാം അതിനാൽ ഒന്നുകിൽ അത് നമുക്ക് സൈൻ തരംഗം ഔട്ട്പുട്ട് നൽകും അല്ലെങ്കിൽ അത് ഒരു സൈൻ തരംഗം നൽകില്ല അതിനർത്ഥം ഇതിന് ഒരു ത്രികോണ തരംഗം നൽകാം അല്ലെങ്കിൽ അതിന് സൈൻ തരംഗങ്ങളല്ലാത്ത മറ്റേതെങ്കിലും തരംഗങ്ങൾ നൽകാം അതിനാൽ സിനുസോയ്ഡൽ അല്ലെങ്കിൽ നോൺ സിനുസോയ്ഡൽ അല്ലേ സിനുസോയ്ഡൽ ഓസിലേറ്ററുകൾക്ക് പൂർണ്ണമായും സിനുസോയ്ഡൽ തരംഗങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും ഔട്ട്പുട്ട് സിനുസോയ്ഡൽ അല്ലാത്തതാണെങ്കിൽ അത് സ്ക്വയർ ത്രികോണ തരംഗം പോലുള്ള തരംഗരൂപങ്ങൾ ഉൽപാദിപ്പിക്കുന്നു ഇനി സർക്യൂട്ട് ഘടകങ്ങളെ അടിസ്ഥാനമാക്കി റെസിസ്റ്ററുകളും കപ്പാസിറ്ററുകളും ഉപയോഗിക്കുന്ന ഓസിലേറ്ററുകളെ ആർസി ഓസിലേറ്ററുകൾ എന്ന് വിളിക്കുന്നു ഇൻഡക്ടറുകളും കപ്പാസിറ്ററുകളും ആവശ്യമുള്ളവയെ എൽസി ഓസിലേറ്റർ ഇൻഡക്റ്റർ എൽ കപ്പാസിറ്റർ സി എൽസി ഓസിലേറ്റർ ചില സന്ദർഭങ്ങളിൽ ക്രിസ്റ്റൽ ഉപയോഗിക്കുന്നു അവയെ ക്രിസ്റ്റൽ ഓസിലേറ്ററുകൾ എന്ന് വിളിക്കുന്നു ചില സന്ദർഭങ്ങളിൽ ക്രിസ്റ്റൽ ഉപയോഗിക്കുന്നു അവയെ ക്രിസ്റ്റൽ ഓസിലേറ്ററുകൾ എന്ന് വിളിക്കുന്നു അതിനാൽ സർക്യൂട്ട് ഘടകങ്ങളെ അടിസ്ഥാനമാക്കി ഓർമിക്കാൻ വളരെ എളുപ്പമാണ് ഇനി ഓപ്പറേറ്റിംഗ് ആവൃത്തിയെ അടിസ്ഥാനമാക്കി നമുക്ക് എങ്ങനെ ഓസിലേറ്ററുകളെ തരംതിരിക്കാം ഓപ്പറേറ്റിംഗ് ആവൃത്തിയെ അടിസ്ഥാനമാക്കി ഓസിലേറ്ററുകളെ ലോ ഫ്രീക്വൻസി ഓസിലേറ്റർ അഥവാ ഫ്രീക്വൻസി ഓസിലേറ്റർ എൽഎഫ് എ എഫ് ഹൈ ഫ്രീക്വൻസി ഓസിലേറ്ററുകൾ ആർഎഫ് ഓസിലേറ്ററുകൾ എന്നിങ്ങനെ തരം തിരിക്കാം ആർസി ഓസിലേറ്ററുകൾ കുറഞ്ഞ ആവൃത്തിയിലും എൽസി ഓസിലേറ്ററുകൾ ഉയർന്ന ആവൃത്തിയിലും ഉപയോഗിക്കുന്നു അതിനാൽ ആവൃത്തിയെ അടിസ്ഥാനമാക്കി അത് കുറഞ്ഞ ഫ്രീക്വൻസി ഓസിലേറ്ററാണെങ്കിൽ സാധാരണയായി അത് ആർസി ഓസിലേറ്ററുകളായിരിക്കും ഉയർന്ന ഫ്രീക്വൻസി ഓസിലേറ്ററുകളാണെങ്കിൽ അത് എൽസി ഓസിലേറ്ററുകളായിരിക്കും അപ്പോൾ നമ്മൾ കണ്ടത് ഘടകത്തെ അടിസ്ഥാനമാക്കി ഔട്ട്പുട്ട് തരംഗത്തെ അടിസ്ഥാനമാക്കി ആവൃത്തിയെ അടിസ്ഥാനമാക്കി ഒക്കെ തരം തിരിക്കാം എന്നാണ് ഇപ്പോൾ നമുക്ക് ഫീഡ്ബാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെ അടിസ്ഥാനമാക്കി നോക്കാം അതിനാൽ ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിക്കുന്ന ഓസിലേറ്ററുകളെ ഫീഡ്ബാക്ക് ഓസിലേറ്ററുകൾ എന്ന് വിളിക്കുന്നു പിന്നെ ഒരു തരത്തിലുമുള്ള ഫീഡ്ബാക്ക് ഉപയോഗിക്കാത്തവയെ നോൺ ഫീഡ്ബാക്ക് തരം ഓസിലേറ്ററുകൾ എന്ന് വിളിക്കുന്നു നോൺ ഫീഡ്ബാക്ക് ഓസിലേറ്ററുകൾ ഓസിലേഷൻ സൃഷ്ടിക്കുന്നതിന് നെഗറ്റീവ് റെസിസ്റ്റൻസ് മേഖല ഉപയോഗിക്കുന്നു യുജെടി റിലാക്സേഷൻ ഓസിലേറ്റർ അത്തരം ഓസിലേറ്ററിന് ഉദാഹരണമാണ് ഇത് ഫീഡ്ബാക്ക് ഇല്ലാത്ത ഓസിലേറ്റർ ആണ് അതിനാൽ ഓസിലേറ്ററുകളുടെ തരങ്ങൾ അല്ലെങ്കിൽ വർഗ്ഗീകരണം ഇവയാണ് അപ്പോൾ നമുക്ക് ആദ്യം ആർസി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ കാണാം എന്താണ് ആർസി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ആർസി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിൽ റെസിസ്റ്ററുകളും കപ്പാസിറ്റൻസുകളും ചേർന്ന ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്കും ആംപ്ലിഫയറും അടങ്ങിയിരിക്കുന്നു അടിസ്ഥാന ആർസി സർക്യൂട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നു ഇപ്പോൾ Vo എന്താണെന്ന് നോക്കാം പോസിറ്റീവ് ഫേസ് ആംഗിൾ സൂചിപ്പിക്കുന്നത് കറന്റ് ഫൈ ആംഗിളിനു വോൾട്ടേജിന്റെ മുന്നിൽ ആണെന്നാണ് ഇപ്പോൾ വി സീറോ തുല്യമായത് ഐ ആർ കൊണ്ട് ഗുണിച്ചതിനു ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് Vo റെസിസ്റ്റൻസിൽ ഉള്ള ഡ്രോപ്പ് ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജിനേക്കാൾ ആംഗിൾ ഫൈ മുന്നിലാണ് ഇത് കറന്റുമായി ഇൻ ഫേസ് ആണ് പൊതുവേ phi യെ സർക്യൂട്ടിന്റെ ഫേസ് ആംഗിൾ എന്ന് വിളിക്കുന്നു ഇത് തിരഞ്ഞെടുത്ത ആർ സി എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പ്രത്യേക ഫേസിൽ കറന്റ് പ്രയോഗിച്ച വോൾട്ടേജിനെക്കാൾ ഒരു ആംഗിൾ ഫൈ മുന്നിലാണ് നമ്മൾ കണ്ടെത്തുന്നത് ആർ നെ അപേക്ഷിച്ച് സി വളരെ വലുതായിരിക്കുമ്പോൾ ഫേസ് ആംഗിൾ 90 ഡിഗ്രി ആകാനുള്ള പ്രവണത കാണിക്കുന്നു എന്നതാണ് അതിനർത്ഥം ഒരു ആർ സി എന്നിവ ഉപയോഗിച്ച് സി വളരെ ഉയർന്നതാണെങ്കിൽ ആർസി വളരെ ഉയർന്നതാണെങ്കിൽ എന്റെ ഔട്ട്പുട്ടിലെ ഫേസ് ഷിഫ്റ്റ് 90 ഡിഗ്രി ആയിരിക്കും എന്നാ പ്രായോഗികമായി മൂല്യങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നു അതായത് 1 ആർസി 60 ഡിഗ്രി ഫേസ് മാറ്റം നൽകും അതായത് 1 ആർസി 60 ഡിഗ്രി ഫേസ് മാറ്റം നൽകും അതിനാൽ എനിക്ക് ഒരു ആർസി ഉണ്ടെങ്കിൽ 60 ഡിഗ്രിയാണ് ഫേസ് ഷിഫ്റ്റ് അതിനാൽ എനിക്ക് ഒരു നോൺ ഇൻവെർട്ടിങ് ആംപ്ലിഫൈർ ഉണ്ടെങ്കിൽ ഒരു സിഗ്നൽ പ്രയോഗിക്കുകയാണെങ്കിൽ എന്റെ ഔട്ട്പുട്ട് 180 ഡിഗ്രി ഫേസിൽ ആയിരിക്കും ഇത് 0 ആണ് ഇത് 180 ഡിഗ്രിയാണ് അതായത് എന്റെ ഫീഡ്ബാക്ക് മറ്റൊരു 180 ഡിഗ്രി ഫേസ് മാറ്റം വരുത്തണം അതിനാൽ എന്റെ ഫീഡ്ബാക്ക് സിഗ്നലും 0 ഡിഗ്രി ആയിരിക്കും ഇത് നമ്മൾ കണ്ടു ഇപ്പോൾ അവസാന സ്ലൈഡിൽ ഒരു ആർസി 60 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നൽകും എന്ന് കണ്ടു അതിനാൽ നൂറ്റി എൺപത് ഡിഗ്രി വളരെ എളുപ്പത്തിൽ നൽകാൻ എത്ര ആർസി സർക്യൂട്ടുകൾ ആവശ്യമാണ് അറുപതിനെ മൂന്ന് കൊണ്ട് ഗുണിച്ചാൽ നൂറ്റി എൺപത് ഡിഗ്രി ലഭിക്കും അതിനർത്ഥം നമ്മൾക്ക് മൂന്ന് ആർ ഉം മൂന്ന് സി ഉം ആവശ്യമാണ് ഇതാണ് ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്നതെന്താണെന്ന് നമുക്ക് നോക്കാം ഉപയോഗിച്ച ആംപ്ലിഫയർ നൂറ്റി എൺപത് ഡിഗ്രി ഫേസ് മാറ്റത്തിന് കാരണമാകുന്നുവെങ്കിൽ ബാർഖൌസെൻ ക്രൈറ്റീരിയൻ നിറവേറ്റുന്നതിന് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് 180 ഡിഗ്രി നൽകണം കാരണം ഇൻപുട്ട് ഫേസ് ഇൻപുട്ടിലേക്ക് തിരികെ നൽകുന്ന ഫീഡ്ബാക്ക് ആയിരിക്കണം എന്നാണ് ബാർഖൌസെൻ ക്രൈറ്റീരിയൻ ഓസിലേറ്റർ ഫേസ് 0 ഡിഗ്രിയോ മുന്നൂറ്റി അറുപതു ഡിഗ്രിയോ ആയിരിക്കണം അതിനാൽ ഒരു ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിൽ ആർസി സർക്യൂട്ടുകളുടെ മൂന്ന് ആർ വിഭാഗങ്ങൾ കാസ്കേഡിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു ഓരോരുത്തരും 60 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് അവതരിപ്പിക്കുന്നു മൊത്തം നൂറ്റി എൺപത് ഡിഗ്രി ഷിഫ്റ്റ് അവതരിപ്പിക്കുന്നു ഇതാണ് ചർച്ചചെയ്തത് ചുവടെ കാണിച്ചിരിക്കുന്നതുപോലെ ആർസി ഫേസ് നെറ്റ്വർക്കിൽ മൂന്ന് ആർസി വിഭാഗങ്ങൾ അടങ്ങിയിരിക്കുന്നു അതിനാൽ ഇൻപുട്ടിൽ എനിക്ക് ഒരു സിഗ്നൽ ഉണ്ടെങ്കിൽ എന്റെ ഔട്ട്പുട്ട് നൂറ്റി എൺപത് ഡിഗ്രി ഫേസിലായിരിക്കും അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇത് ഒരു ബീറ്റയാണ് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഉണ്ട് ഇത് ഒന്നുമല്ല എന്റെ ബീറ്റയാണ് ഇത് എന്റെ ബീറ്റയാണ് അതിനാൽ നൂറ്റി എൺപത് ഡിഗ്രി ഫേസ് ഷിഫ്റ്റോ ഇൻപുട്ടിനൊപ്പം ഫേസിലോ ഉള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് പ്രയോഗിക്കുകയാണെങ്കിൽ ഇൻപുട്ടിനുള്ള എന്റെ ഫീഡ്ബാക്ക് വീണ്ടും 0 ഡിഗ്രി ആയിരിക്കും കാരണം നൂറ്റി എൺപത് പ്ലസ് നൂറ്റി എൺപത് ഇത് ഇവിടെ നിന്ന് അറുപതു ഇവിടെ നിന്ന് അറുപതു അറുപതു ഇവിടെ നിന്ന് അതിനാൽ നൂറ്റി എൺപത് ഡിഗ്രി ഫേസ് ഷിഫ്റ്റിനെ ഇത് സീറോ അല്ലെങ്കിൽ മുന്നുറ്റിഅറുപതു ഡിഗ്രി ഫേസ് ഷിഫ്റ്റായി മാറുന്നു നെറ്റ്വർക്കിനെ ഒരു ലാഡ്ഡർ ശൃംഖല എന്നും വിളിക്കുന്നു എല്ലാ റെസിസ്റ്റൻസ് മൂല്യവും എല്ലാ കപ്പാസിറ്റർ മൂല്യങ്ങളും തുല്യമാണ് അതിനാൽ ഒരു പ്രത്യേക ആവൃത്തിക്കായി ആർസിയുടെ ഓരോ വിഭാഗവും അറുപതു ഡിഗ്രി ഫേസ് മാറ്റം സൃഷ്ടിക്കുന്നു അതിനാൽ ഒരു ഓപ്പറേഷനൽ ആംപ്ലിഫയർ ഉപയോഗിച്ച് ഒരു ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ രൂപകൽപ്പന ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എങ്ങനെ ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ രൂപകൽപ്പന ചെയ്യും ട്രാൻസിസ്റ്ററൈസ്ഡ് ആംപ്ലിഫയറിന് പകരം ഓപ്ആംപ് ഉപയോഗിച്ച് ഇത് മനസ്സിലാക്കാനാകും ഓപ്ആംപ് ഒരു സ്ഥിരമായ ഗെയ്ൻ നൽകുന്നു ഉപയോഗിച്ച ഫീഡ്ബാക്ക് സർക്യൂട്ട് സമാനമാണ് ഞാൻ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും എന്നാൽ നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഓപ്ആംപ് ഉപയോഗിച്ചുള്ള ആംപ്ലിഫൈർ ആണ് അതിനാൽ ഇതാണ് ഓപ്ആംപ് ആർ എഫ് ആർ ഐ എന്നിവയുടെ മൂല്യം മാറ്റിക്കൊണ്ട് എനിക്ക് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ മാറ്റാൻ കഴിയും എന്നതാണ് നേട്ടം മറ്റൊരു പോയിന്റ് ഓപ്ആമ്പിൽ എന്റെ ഔട്ട്പുട്ട് അവതരിപ്പിച്ച ഫേസ് എന്തായാലും ഇവിടെ എനിക്ക് നൂറ്റി എൺപത് ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാകും കാരണം ഇത് ഒരു നോൺ ഇൻവെർട്ടിങ് ആംപ്ലിഫൈർ ആണ് അതിനാൽ ഈ നൂറ്റി എൺപത് ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് എന്റെ ആർസി നെറ്റ്വർക്കിന് നൽകിയിട്ടുണ്ട് അതിനാൽ ഇവിടെ ഈ ഫേസിൽ എനിക്ക് സീറോ അല്ലെങ്കിൽ മുന്നൂറ്റി അറുപതു ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാകും നൂറ്റി എൺപത് ഡിഗ്രി ഇൻവെർട്ടിങ് മോഡിൽ ഉള്ള ഓപ്ആംപ് തരും ആർസി നെറ്റ്വർക്ക് നൂറ്റി എൺപത് ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നൽകുന്നു ഇതാണ് ഇത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ആവശ്യമായ ഓസിലേഷൻസ് ലഭിക്കുന്നതിന് ഓപ്ആമ്പിൻറെ നേട്ടം റെസിസ്റ്ററുകളായ ആർഎഫ് ആർഐ എന്നിവയുടെ സഹായത്തോടെ ക്രമീകരിക്കുന്നു അതായത് ഓപ്ആമ്പിന്റെയും ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെയും നേട്ടത്തിന്റെ ഫലം ഒന്നിനേക്കാൾ അല്പം കൂടുതലാണ് അതിനർത്ഥം ഓസിലേഷൻസ് ആരംഭിക്കുന്നതിന് തുടക്കത്തിൽ എ ബീറ്റ എന്നിവയുടെ ഗുണനഫലം ഒന്നിനേക്കാൾ വലുതാണെന്ന് നമ്മൾ മറ്റൊരു രീതിയിൽ പറയും ഓസിലേഷൻസ് ആരംഭിച്ചു കഴിഞ്ഞാൽ എ ബീറ്റ ഒന്നിന് തുല്യമായിരിക്കണം അതിനാൽ ആർഎഫ് ആർഐ എന്നിവയുടെ മൂല്യം മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് ഇത് മാറ്റാൻ കഴിയും ഇവിടെ ഈ ഫീഡ്ബാക്ക് ഇവിടെ ബന്ധിപ്പിച്ചിരിക്കുന്നു ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലേക്ക് ഇത് ബന്ധിപ്പിച്ചിരിക്കുന്നു ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെ ഔട്ട്പുട്ട് മുതൽ ഓസിലേറ്ററിന്റെ ഇൻപുട്ട് വരെ അതിനാൽ ഫലപ്രദമായ ആർസി ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു അതിനാൽ ഇത് വി ഐ ആണ് ഇത് വി സീറോ വി എഫ് ന് തുല്യമാണ് ഇപ്പോൾ ആർ സി ഓസിലേറ്റർ ഓസിലേറ്റ് ചെയ്യുന്ന ആവൃത്തിയാണിത് ഇത് ഈ പ്രത്യേക മൊഡ്യൂളിന്റെ അവസാന ഭാഗമാണ് അതിനാൽ ഈ പ്രത്യേക മൊഡ്യൂളിൽ നമ്മൾ കണ്ടത് നമുക്ക് ഒരു ആർസി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ എങ്ങനെ രൂപകൽപ്പന ചെയ്യാം എന്നാണ് നമുക്ക് ഒരു ഇൻവെർട്ടിങ് ആംപ്ലിഫൈർ ഉണ്ടെങ്കിൽ നൂറ്റി എൺപത് ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ലഭിക്കുന്നതിന് മൂന്ന് ആർ മൂന്ന് സി എന്നിവ ഉപയോഗിക്കേണ്ടതുണ്ട് കാരണം ഒരു ആർ ഒരു സി എന്നിവ നമുക്ക് അറുപത് ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നൽകും അപ്പോൾ ആർ സി ഓസ്സിലാറ്റർ ആവൃത്തി R C എന്നിവ ഉപയോഗിച്ച് മാറ്റാം ഫ്രീക്വൻസി ഫോർമുല 1 2πR√6 ഉണ്ട് അതിനാൽ എ ബീറ്റ എന്നിവയുടെ ഗുണനഫലം ഒന്നിനേക്കാൾ വലുതോ തുല്യമോ ആണെങ്കിൽ എന്റെ നേട്ടം 29 ന് തുല്യമായിരിക്കണം അതിനാൽ നിങ്ങൾക്ക് ഒരു ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ നേട്ടം ഇരുപത്തിയൊമ്പതും ബീറ്റ 129 ഉം ആയിരിക്കണമെന്ന് അറിയാം പ്രധാന കാര്യം നേട്ടവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബീറ്റ വളരെ ചെറുതാണെന്ന് നിങ്ങൾ കാണുന്നു മറ്റൊന്ന് 180 ഡിഗ്രിയുടെ ഫേസ് മാറ്റമാണ് എന്തുകൊണ്ട് നൂറ്റി എൺപത് ഡിഗ്രി കാരണം നമ്മൾ ഇൻവെർട്ടിങ് ആംപ്ലിഫൈർ ആണ് ഉപയോഗിച്ചത് അതിനാൽ ആർസി ഫേസ് ഷിഫ്റ്റ് മൂന്ന് ആർസി നൂറ്റി എൺപത് ഡിഗ്രി നൽകും ഇൻവെർട്ടിങ് ആംപ്ലിഫയറും നൂറ്റി എൺപത് ഡിഗ്രി നൽകും ഇൻപുട്ടിലേക്ക് തിരികെ നൽകുന്നത് മുന്നുറ്റിഅറുപതു ഡിഗ്രി ആണ് അത് നൂറ്റി എൺപതും നൂറ്റി എൺപതും കൂടെ കൂടിയതാണ് ബാർഖൌസെൻ ക്രൈറ്റീരിയൻ ഇവിടെ പാലിച്ചിരിക്കുന്നു രണ്ടാമത്തേത് എ ഗുണനം ബീറ്റ ഒന്നിന് തുല്ല്യമായിരിക്കും അതിനാൽ രണ്ട് മാനദണ്ഡങ്ങളും തൃപ്തിപ്പെടുത്തുന്നതിലൂടെ ആർസി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ എങ്ങനെ രൂപകൽപ്പന ചെയ്യാമെന്ന് നമുക്ക് ഇപ്പോൾ മനസിലാക്കാൻ കഴിയും ആർസി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ എങ്ങനെ രൂപകൽപ്പന ചെയ്യാമെന്ന് നമുക്ക് ഇപ്പോൾ മനസിലാക്കാൻ കഴിയും പരീക്ഷണാത്മക ഭാഗത്ത് ഓസിലേറ്ററിന്റെ കുറച്ച് ഉദാഹരണങ്ങളും കാണാം അതിനാൽ നമ്മൾ എങ്ങനെ രൂപകൽപ്പന ചെയ്യുന്നുവെന്നും ഇൻപുട്ട് നൽകാത്തപ്പോൾ ഓസിലേറ്ററുകളിൽ എങ്ങനെയാണ് ഔട്ട്പുട്ട് ലഭിക്കുന്നതെന്നും കണ്ടു അതിനാൽ തുടക്കത്തിൽ നമുക്ക് എ ഗുണനം ബീറ്റ ഒന്നിൽ കൂടുതൽ ഉണ്ടാകും തുടർന്ന് എ ഗുണനം ബീറ്റ ഒന്നിന് തുല്യം ആയി മാറുന്നു ഇപ്പോൾ അടുത്ത മൊഡ്യൂളിൽ നമ്മൾ എന്ത് കാണും വെയ്ൻ ബ്രിഡ്ജ് ഓസിലേറ്റർ എന്ന് വിളിക്കുന്ന മറ്റൊരു ക്ലാസ് ഓസിലേറ്റർ നമ്മൾ കാണും അപ്പോൾ എന്താണ് വെയ്ൻ ബ്രിഡ്ജ് ഓസിലേറ്ററുകൾ അടുത്ത മൊഡ്യൂളിൽ നോക്കാം അതുവരെ നിങ്ങൾ ഈ ആർസി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററും അതിന്റെ പ്രവർത്തനവും നോക്കു അതിനാൽ നിങ്ങൾ ഇത് വായിക്കു അടുത്ത ക്ലാസ്സിൽ കാണാം